നമസ്കാരം കോഴ്സ് ഔട്ട്കംസ് ടാഗുചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂണിറ്റ് 18 ലേക്ക് സ്വാഗതം കോഴ്സ് ഔട്ട്കം സ്റ്റെമെന്റ്സിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും നാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു അതിനർത്ഥം ഞങ്ങൾ നിരവധി നടപടിക്രമങ്ങളും നിരവധി ഘടകങ്ങളും തിരിച്ചറിഞ്ഞു അതിനാൽ അവയെല്ലാം നിർവ്വചിച്ചിട്ടുള്ള ചട്ടക്കൂട് പിന്തുടർന്ന് നിങ്ങൾക്ക് നല്ല കോഴ്സ് ഔട്ട്കംസ് എഴുതുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നു ഇപ്പോൾ കോഴ്സ് ഔട്ട്കം സ്റ്റേറ്റ്മെന്റ്സ് എഴുതിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓരോ കോഴ്സ് ഔട്ട്കം സ്റ്റേറ്റ്മെന്റ്സിനും ആവശ്യമായി വരാൻ സാധ്യതയുള്ള ക്ലാസ് റൂം സെഷനുകളുടെ എണ്ണം ക്രമപെടുത്തുക എന്നതാണ് ഇത് വളരെ കൃത്യമായിരിക്കണമെന്നില്ല മിനിറ്റുകളുടെയും മറ്റും പരിധിയിൽ ഇത് തിരിച്ചറിയേണ്ടതില്ല ഏകദേശം ക്ലാസ് റൂം സെഷനുകൾ തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ കോഴ്സ് ഫലവും PO കൾ അല്ലെങ്കിൽ PSO കൾ കോഗ്നിറ്റീവ് ലെവലുകൾ വിജ്ഞാന വിഭാഗങ്ങൾ എന്നിവയുമായി നാം ടാഗ് ചെയ്യുന്നു കാരണം ഓരോ കോഴ്സും ഒന്നാമതായി അതിന്റെ പ്രവർത്തന ക്രിയയിലൂടെ ഒരു വൈജ്ഞാനിക തലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുടർന്ന് നാം അഭിസംബോധന ചെയ്യുന്ന ഒന്നോ അതിലധികമോ വിജ്ഞാന വിഭാഗങ്ങളുണ്ട് ഒരു കോഴ്സ് ഫലത്തെ അഭിസംബോധന ചെയ്യുന്ന പിഒകളും പിഎസ്ഒകളും ഏതാണ് എന്ന് ഇപ്പോൾ ബന്ധപ്പെടുത്താനും നാം ആഗ്രഹിക്കുന്നു ഇപ്പോൾ ക്ലാസ് റൂം സെഷനുകളിലേക്ക് വരുന്നു നാം നേരത്തെ പറഞ്ഞതുപോലെ പല സർവകലാശാലകളും കോഴ്സുകളുടെ സിലബസുകളെ 5 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ യൂണിറ്റുകളിൽ വിവരിക്കുന്നു ചിലപ്പോൾ നമ്മൾ കണ്ട ചില സർവകലാശാലകൾ അവർ 7 യൂണിറ്റുകളിലേക്കോ 8 യൂണിറ്റുകളിലേക്കോ പോകാം തുടർന്ന് നിങ്ങൾ എല്ലാ യൂണിറ്റുകളുമായും ഒരേ എണ്ണം ക്ലാസ് റൂം സെഷനുകളെ ബന്ധപ്പെടുത്തുന്നു അതിനാൽ ഒരു CO ഒരു യൂണിറ്റുമായി ബന്ധപ്പെടുത്തണമെന്ന നിബന്ധന നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ എല്ലാ CO കളും ഒരേ എണ്ണം ക്ലാസ് റൂം സെഷനുകൾ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒരു 40 പ്രഭാഷണമോ 45 പ്രഭാഷണ കോഴ്സോ ഉണ്ടെങ്കിൽ യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് സ്വയമേവ ക്ലാസ് റൂം സെഷനുകൾ ലഭിക്കും എന്നാൽ സ്വയംഭരണാധികാരമുള്ള യൂണിറ്റ് സ്ഥാപനങ്ങൾ യൂണിറ്റ് ഘടന പിന്തുടരേണ്ടതില്ല കൂടാതെ വിഷയം വിഷയ വിദഗ്ദ്ധൻ അധ്യാപകൻ എന്നിവ തീരുമാനിച്ച CO യുടെ എണ്ണം ഉണ്ടായിരിക്കാം അതിനാൽ വ്യത്യസ്ത CO കൾക്ക് വ്യത്യസ്ത ക്ലാസ് റൂം സെഷനുകൾ ഉണ്ടായിരിക്കാം ഏകദേശം സ്വയംഭരണേതര സ്ഥാപനങ്ങളിൽ പോലും യൂണിറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലോ കുറവോ CO കൾ എഴുതാൻ ഒരാൾ തയ്യാറാണെങ്കിൽ എല്ലാ CO കൾക്കും ഒരേ എണ്ണം ക്ലാസ് റൂം സെഷനുകൾ ഉണ്ടാകണമെന്നില്ല ശരിയല്ലേ ക്ലാസ്സ് റൂം സെഷനുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ കോഗ്നിറ്റീവ് തലത്തിലേക്ക് വരുന്നു അപ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും ഒരു CO സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത് ഒരു ആക്ഷൻ ക്രിയയോടെയാണ് ഈ ഒരു ആക്ഷൻ ക്രിയ അത് കോഗ്നിറ്റീവ് തലങ്ങളിൽ ഒന്നിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് വ്യത്യസ്ത കോഗ്നിറ്റീവ് തലങ്ങളിൽ നിന്നുള്ള രണ്ട് പ്രവർത്തന ക്രിയകളാൽ ആകാമെന്നും നാം ഇടയ്ക്കു പറഞ്ഞു എന്നാൽ രണ്ട് ആക്ഷൻ ക്രിയകൾ ഉപയോഗിക്കുന്നത് ഒരു അപവാദമായിരിക്കണം അതിനാൽ ആക്ഷൻ ക്രിയ CO നെ കോഗ്നിറ്റീവ് ലെവൽ ഉപയോഗിച്ച് ടാഗുചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു റിമെംബേർ നായി R അണ്ടർസ്റ്റാൻഡ് നായി U അപ്ലൈ നായി Ap അനലൈസ് നായി An ഇവാലുവേറ്റ് നായി E കൂടാതെ ക്രീയേറ്റ് നായി C എന്നീ ചുരുക്കെഴുത്തുകൾ നാം ഉപയോഗിക്കുന്നു നമ്മൾ ഇടക്ക് പറഞ്ഞതുപോലെ ഒരു സിഒയെ രണ്ട് കോഗ്നിറ്റീവ് തലങ്ങളാൽ ടാഗ് ചെയ്യേണ്ടതായി വന്നേക്കാം കോഗ്നിറ്റീവ് ലെവലുകൾ തമ്മിൽ കൃത്യമായ അതിർത്തിയില്ലാത്തതിനാൽ എന്താണ് സംഭവിക്കുന്നത് രണ്ട് വ്യത്യസ്ത വൈജ്ഞാനിക തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രവർത്തന ക്രിയയ്ക്ക് എല്ലായ്പ്പോഴും സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഐഡന്റിഫയ് എന്ന ഒരു പ്രവർത്തന ക്രിയ അണ്ടർസ്റ്റാൻഡ് അനലൈസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് കോഗ്നിറ്റീവ് തലങ്ങളിലും തികച്ചും സ്വീകാര്യമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ഉചിതമായ കോഗ്നിറ്റീവ് തലത്തിൽ സി യെ ടാഗ് ചെയ്യാൻ അധ്യാപകൻ സ്വന്തം വിധി ഉപയോഗിക്കണം എന്നതാണ് ഇപ്പോൾ വിജ്ഞാന വിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഓരോ CO സ്റ്റേറ്റ്മെന്റിലും ഒന്നോ അതിലധികമോ വിഭാഗത്തിലുള്ള അറിവ് ഉൾപ്പെടും ഇപ്പോൾ ഈ ക്യാറ്റഗറീസ് ഓഫ് നോലെഡ്ജ് അഥവാ അറിവിന്റെ വിഭാഗങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫാക്ട്ചുവൽ എന്നതിന്റെ ചുരുക്കെഴുതായി F കോൺസെപ്റ്റുവൽ C പ്രോസെഡ്യൂറൽ P മെറ്റാകോഗ്നിറ്റീവ് M കൂടാതെ എഞ്ചിനീയറിംഗ് വിജ്ഞാന വിഭാഗങ്ങൾ എന്നിവ നിങ്ങൾക്ക് നോക്കാം ഫണ്ടമെന്റൽ ഡിസൈൻ പ്രിൻസിപ്പൽസ്ന് FDP എന്ന് പറയാം തുടർന്ന് ക്രൈറ്റീരിയ സ്പെസിഫിക്കേഷൻസ് എന്നിവക്ക് C S എന്നിവയും പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് എന്നിവയ്ക്കായി നിങ്ങൾക്ക് PCയും ഡിസൈൻ ഇൻസ്ട്രുമെന്റാലിറ്റിക്കായി നിങ്ങൾക്ക് DI എന്നും ഉപയോഗിക്കാം ശരി അറിവ് വിഭാഗങ്ങളുമായി CO ടാഗ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ ചുരുക്കെഴുത്തുകൾ ഉപയോഗിക്കാം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പ്രസ്താവന ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാന വിഭാഗങ്ങളെയും വ്യക്തമായി സൂചിപ്പിച്ചേക്കാം അല്ലെങ്കിൽ സൂചിപ്പിച്ചേക്കില്ല ചില വിജ്ഞാന വിഭാഗങ്ങളെ പരോക്ഷമായി അഭിസംബോധന ചെയ്തേക്കാം നിർദ്ദിഷ്ട നിർദ്ദേശത്തിന്റെയും മൂല്യനിർണ്ണയത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇൻസ്ട്രക്ടർ ഈ വിഭാഗങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയെ പ്രതീക്ഷിക്കുന്നുവെന്ന് പറയാം CO യിൽ ഒന്ന് അനലോഗ് ഇലക്ട്രോണിക്സിൽ ഒരു ഫിൽറ്റർ രൂപകൽപ്പന ചെയ്യുക നിങ്ങൾക്ക് ഒരു അനലോഗ് ഫിൽട്ടറിൽ ഡിസൈൻ എഴുതണം അങ്ങനെ വിശാലമായി അത് അപ്ലൈ കോഗ്നിറ്റീവ് തലത്തിൽ പെടുന്നു നിങ്ങൾക്ക് കൺസെപ്ച്വൽ പ്രൊസീജറൽ ഭാഗം എന്തായാലും നേരിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു എന്നാൽ നമ്മൾ ക്രൈറ്റീരിയ സ്പെസിഫിക്കേഷൻസ് പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം CO പ്രസ്താവനയുടെ ഭാഗമായി നാം ഇത് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം എന്നാൽ നിങ്ങൾ അവ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിർദ്ദേശം നടത്തുകയാണെങ്കിൽ ഈ രണ്ട് വിജ്ഞാന വിഭാഗങ്ങളും നിങ്ങൾ ടാഗ് ചെയ്യണം ഈ രണ്ട് വിഭാഗങ്ങളും നിങ്ങളുടെ മൂല്യനിർണ്ണയ ഉപകരണങ്ങളും ശ്രദ്ധിക്കുന്നത് ഈ രണ്ടിനെയും പ്രതിഫലിപ്പിക്കുന്നു അതിനർത്ഥം ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ഒരു ക്വിസ് അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം അതിനാൽ ഈ നിർദ്ദിഷ്ട ഒന്നിനെ സംഗ്രഹിച്ചുകൊണ്ട് പറയുമ്പോൾ CO പ്രസ്താവന ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാന വിഭാഗങ്ങളെയും നേരിട്ട് സൂചിപ്പിച്ചേക്കാം അല്ലെങ്കിൽ സൂചിപ്പിച്ചേക്കില്ല സിഒ സ്റ്റേറ്റ്മെൻറ് എഴുതുമ്പോളും കൂടാതെ എല്ലാ വിജ്ഞാന വിഭാഗങ്ങളും അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുമ്പോളും അധ്യാപകൻ ഇത് വ്യക്തമായി മനസ്സിലാക്കണം ഇപ്പോൾ PSO യിലേക്ക് വരുമ്പോൾ ഇത് താരതമ്യേന എളുപ്പമാണ് സാധാരണ PSO കൾ തന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ സ്പെഷ്യലൈസേഷന്റെ വിവിധ സ്ട്രീമുകളുടെ വിവിധ സവിശേഷതകളെ പ്രതിനിധാനം ചെയ്യാൻ എഴുതപ്പെടുന്നു നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ വിശാലമായി 3 സ്ട്രീമുകൾ ഉണ്ട് നിങ്ങൾക്ക് മാനുഫാക്ചറിംഗ് ഡിസൈൻ തുടർന്ന് തെർമൽ എഞ്ചിനീയറിംഗ് എന്നിവയുണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കാം ഒരാൾക്ക് 3 PSO കൾ എഴുതാൻ കഴിയും ഓരോ PSO യും ഓരോ സ്ട്രീമുകളെ പ്രതിനിധീകരിക്കുന്നു കൂടാതെ ഒരു നിശ്ചിത സ്ട്രീമിനായി ചിലപ്പോൾ നിങ്ങൾക്ക് 2 PSO കൾ എഴുതാം അങ്ങനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒരു കോഴ്സ് ഉള്ളപ്പോഴെല്ലാം അത് ഏത് പിഎസ്ഒയെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് വ്യക്തമാണ് അതിനാൽ കോഴ്സിന്റെ എല്ലാ CO കളും ഒരേ PSO യെ പ്രതിനിധീകരിക്കണം അത് അർത്ഥവത്താകണം അത് ഏത് PSO യെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കണം ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതും നിർണായകവുമായ ഭാഗത്തേക്ക് വരുന്നു അതായത് CO കൾ PO കൾ ഉപയോഗിച്ച് ടാഗുചെയ്യുന്നു നിലവിൽ സ്വയംഭരണേതര സ്ഥാപനങ്ങൾ നൽകുന്ന മിക്ക കോഴ്സുകളും PO1 ഒഴികെയുള്ള ഒരു PO യെയും അഭിസംബോധന ചെയ്യുന്നില്ല നിങ്ങൾ അതിലേക്കു ക്ര്യത്യമായി പോകുകയാണെങ്കിൽ ഞങ്ങൾ അത്എങ്ങനെ തീരുമാനിക്കും ഉദാഹരണത്തിന് നിങ്ങൾ പരീക്ഷാ പേപ്പർ നോക്കുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും PO1 നെ മാത്രമാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് വ്യക്തമാകും കൂടാതെ PO1 ൽ പോലും നാം കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് പ്രോബ്ലെംസ് അഥവാ സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല അതിനാൽ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതോ നിർവ്വചിച്ചതോ ആയ രീതിയിൽ പ്രോജക്റ്റുകളുടെ തലത്തിലല്ലാതെ സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ നാം കാണുന്നില്ല എന്ന് പറയേണ്ടി വരും അതിനാൽ നാം ഇതിനകം കോഴ്സുകളിലെ മുഴുവൻ PO1 നെ അഭിസംബോധന ചെയ്യുന്നില്ല PO7 PO8 PO10 PO11 പോലുള്ള നിർദ്ദിഷ്ട PO കൾ അഭിസംബോധന ചെയ്യുന്ന ചില കോഴ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് PO11 പ്രോജക്ട് മാനേജുമെന്റും ധനകാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ പ്രോജക്ട് മാനേജ്മെന്റിനായി മാത്രമായി ഒരു കോഴ്സ് ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ കോഴ്സ് PO 11 നെ അഭിസംബോധന ചെയ്യും എന്നാൽ അത്തരമൊരു കോഴ്സ് ഇല്ലെങ്കിൽ PO ലെവൽ വളരെ പരോക്ഷമായി മാത്രമേ അഭിസംബോധന ചെയ്യപ്പെടുകയുള്ളൂ അപ്പോൾ PO10 ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഒരു കോഴ്സെങ്കിലും ഉണ്ട് അവ ഏത് പേരിലാണെങ്കിലും PO10 നേരിട്ട് ആ കോഴ്സിലൂടെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ പിഒയെ നേരിട്ട് അഭിസംബോധന ചെയ്യണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ PO10 മറ്റ് കോഴ്സുകളിലൂടെയും അഭിസംബോധന ചെയ്യാവുന്നതാണ് ചില പ്രവർത്തനങ്ങൾ നടത്തുക ആശയവിനിമയ കഴിവുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയുടെ പ്രകടനം നിങ്ങൾ വിലയിരുത്തുകയും ചെയ്യും വിദ്യാർത്ഥിയുടെ ആശയവിനിമയ വൈദഗ്ധ്യത്തിനായി നിങ്ങൾ വിലയിരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ PO10 നെ അഭിസംബോധന ചെയ്യുന്നില്ല ഉദാഹരണത്തിന് PO8 എത്തിക്സ് അഥവാ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചില പ്രോഗ്രാമുകൾക്ക് പ്രൊഫഷണൽ എത്തിക്സിനെക്കുറിച്ച് ഒരു കോഴ്സ് ഉണ്ട് ആ സാഹചര്യത്തിൽ നിങ്ങൾ നേരിട്ട് അഭിസംബോധന ചെയ്യുകയും വളരെ അപൂർവ്വമായി മറ്റേതെങ്കിലും കോഴ്സിനെ നേരിട്ടോ അല്ലാതെയോ അഭിസംബോധന ചെയ്യുന്നു അതുപോലെ PO7 എൻവിറോണ്മെന്റ് പിന്നെ സസ്റ്റൈനബിലിറ്റി അഥവാ പരിസ്ഥിതിയും സുസ്ഥിരതയും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു യുജിസി ആവശ്യകത അനുസരിച്ച് മിക്ക പ്രോഗ്രാമുകൾക്കും എൻവിറോണ്മെന്റ് പിന്നെ സസ്റ്റൈനബിലിറ്റി യെക്കുറിച്ച് ചില കോഴ്സുകൾ ഉണ്ട് ആ സാഹചര്യത്തിൽ നിങ്ങൾ ആ പ്രത്യേക കോഴ്സിലൂടെ PO7 നേരിട്ട് അഭിസംബോധന ചെയ്യുന്നു എന്നാൽ ഒരിക്കൽ കൂടി മറ്റേതെങ്കിലും കോഴ്സ് മറ്റെല്ലാ കോഴ്സുകളും മിക്കപ്പോഴും ഈ നാല് ഔട്ട്കംസിനെ അഭിസംബോധന ചെയ്യുന്നില്ല പ്രോജക്റ്റുകളിലേക്ക് വരുമ്പോൾ പ്രോജക്റ്റുകൾക്ക് നിരവധി PO കളെ അഭിസംബോധന ചെയ്യാൻ കഴിയും പ്രായോഗികമായി നിങ്ങൾക്ക് വേണമെങ്കിൽ അവ ഉപയോഗിച്ച് എല്ലാ 12 PO കളെയും അഭിസംബോധന ചെയ്യാൻ കഴിയും എന്നാൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന റൂബ്രിക്സിൽ അവ പ്രതിഫലിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ മാത്രം ഉദാഹരണത്തിന് പ്രോജക്റ്റ് ഗ്രൂപ്പുകളിൽ സാധാരണയായി 3 4 വിദ്യാർത്ഥികൾ പ്രോജക്റ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ സാഹചര്യത്തിൽ ഒരു ടീമിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവർ പഠിക്കേണ്ടതുണ്ട് അവർ ഒരു സമഗ്രമായ റിപ്പോർട്ട് എഴുതണം അതിനാൽ ആശയവിനിമയത്തെ അഭിസംബോധന ചെയ്യാവുന്നതാണ് തുടർന്ന് നിങ്ങൾ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പദ്ധതിയുടെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ച് മറ്റ് PO കൾ ബന്ധപെടുത്താം എന്നാൽ പ്രധാന കാര്യം മൂല്യനിർണ്ണയത്തിന് ഉൾപ്പെടുത്തുന്നതിന് നിങ്ങൾ റബ്രിക്സ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിർദ്ദിഷ്ട PO കളെ വിലയിരുത്തുന്ന റബ്രിക്സ് നിങ്ങൾക്ക് ആ PO അല്ലെങ്കിൽ ആ PO യുമായുള്ള ഒരു കോഴ്സ് ടാഗ് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ ഒരു COയെ അതിന്റെ PO ഉപയോഗിച്ച് ടാഗുചെയ്യുന്നതിന് മൂല്യനിർണ്ണയത്തിൽ തിരിച്ചറിഞ്ഞ POയുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ ഉൾപ്പെടുന്നു അതിനാൽ എന്ത് സംഭവിക്കാം വിശാലമായ PO കൾ അഭിസംബോധന ചെയുന്ന CO എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മൂല്യനിർണ്ണയ ഉപകരണം എടുക്കുകയാണെങ്കിൽ പ്രധാന ഉപകരണമായ എൻഡ് സെമസ്റ്റർ പരീക്ഷ നടക്കും അവസാന സെമസ്റ്റർ പരീക്ഷ പേപ്പറിന്റെ ഒരു ദ്രുത വിലയിരുത്തൽ നിയുക്ത PO കൾ പ്രതിനിധീകരിച്ചിട്ടുണ്ടോ എന്ന് മനസിലാക്കാൻ സഹായിക്കും ഒരു കോഴ്സിന്റെ ഒരു CO യ്ക്ക് ഗണ്യമായ എണ്ണം PO കളെ അഭിസംബോധന ചെയ്യാൻ കഴിയും 12 ൽ എനിക്ക് 6 7 PO കളെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എഴുതാൻ കഴിയും പക്ഷേ ലഭ്യമായ സമയത്തിനും വിഭവങ്ങൾക്കും ഉള്ളിൽ നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളും നടത്താൻ കഴിയണമെന്നില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽപ്പോലും തിരഞ്ഞെടുത്ത എല്ലാ PO കളെയും അഭിസംബോധന ചെയ്യാൻ നിങ്ങൾക്ക് സെമസ്റ്ററിൽ മതിയായ സമയമോ മതിയായ സെഷനുകളോ ലഭ്യമാകണമെന്നില്ല കൂടാതെ ചിലപ്പോൾ നിരവധി സിഒയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ എളുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിയില്ല കേന്ദ്രീകൃതവും മൂല്യനിർണ്ണയവുമായ പരീക്ഷയിൽ രൂപകൽപ്പന ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഉപയോഗിക്കാൻ കഴിയില്ല വിശാലമായ PO കളെ അഭിസംബോധന ചെയ്യുന്ന ഒരു CO നിങ്ങൾക്ക് നന്നായി എഴുതാം പക്ഷേ സർവകലാശാല കേന്ദ്രീകൃതമായ നമ്മുടെ അവസാന സെമസ്റ്റർ പരീക്ഷ ആ PO കളുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കണമെന്നില്ല സാധാരണയായി ഉൾപ്പെട്ടിരിക്കുന്ന സംഖ്യകൾ കാരണം വിദ്യാർത്ഥികൾ അതിനായി ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഉത്തരം എഴുതണമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ PO കളും ഉൾപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്നാൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾ ചില PO കളെ അഭിസംബോധന ചെയ്യണമെന്ന് നിങ്ങൾ അപ്പോഴും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു വകുപ്പിന് ചില PO കളെ അഭിസംബോധന ചെയ്യുന്നതിന് പാഠ്യപദ്ധതിക്ക് പുറത്ത് ചില പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ കഴിയും പ്ലേസ്മെന്റ് വീക്ഷണകോണിൽ നിന്ന് ആ PO കളുടെ പരിചയമോ നേട്ടമോ ആവശ്യമാണ് എന്നാൽ നിങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കും ഏത് സെമസ്റ്ററിൽ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു നിങ്ങൾ ഏത് കോഴ്സുമായി ചേർന്നു സംഘടിപ്പിക്കുന്നു എന്നതിനൊക്കെ തനതു വകുപ്പിന്റെ ഗണ്യമായ ആസൂത്രണം ആവശ്യമാണ് ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ഈ പ്രത്യേക കോഴ്സ് കൈനമാറ്റിക്സ് ഓഫ് മെഷീൻസ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് 3 1 0 ആണ് അതായത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രഭാഷണ സമയങ്ങളും ആഴ്ചയിൽ 1 ട്യൂട്ടോറിയൽ സെഷനും ഉണ്ട് അങ്ങനെയാണ് മണിക്കൂറുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് മൊത്തത്തിൽ 38 വരെ ആകുമ്പോൾ മിക്ക കോഴ്സുകളിലും 3 1 0 കോഴ്സിന് 40 മുതൽ 45 വരെ ക്ലാസ് സെഷനുകൾ ഉണ്ട് അതിനാൽ ഇവിടെയുള്ള സംഖ്യകൾ കൃത്യമായി പൊരുത്തപ്പെടുന്നില്ല എന്നാൽ ചില ഫാക്കൽറ്റി അംഗങ്ങൾ സൃഷ്ടിച്ച ഒരു സാമ്പിളാണ് ഇത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതിൽ 7 ഉണ്ട് കൂടാതെ PO കളിലേക്കും PSO കളിലേക്കും വരുന്നത് PO1 ഉൾപ്പെടെയാണ് എല്ലാ CO കൾക്കും PSO1 ഇത് മാത്രമാണ് ഒരു PO മാത്രം കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ വ്യക്തമാണ് ഉദാഹരണത്തിന് കോഗ്നിറ്റീവ് തലത്തിലേക്ക് വരുമ്പോൾ ഇത് U ആണ് അണ്ടർസ്റ്റാൻഡ് പിന്നെ ഫക്ടുവൽ നോലെഡ്ജ് എന്നിവ ബന്ധപ്പെട്ട മെക്കാനിസത്തിന്റെ പദാവലി കാണിക്കുന്നു ഇവിടെ ഏകദേശം 3 ക്ലാസ് റൂം സെഷനുകളും 1 ട്യൂട്ടോറിയൽ സെഷനും ഉണ്ട് ഇവിടെ വരുമ്പോൾ പ്ലാനർ മെക്കാനിസങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയും ചലനാത്മകതയുടെയും അളവ് തിരിച്ചറിയുക കോഗ്നിറ്റീവ് നില ഇപ്പോഴും U ആണ് അതായത് ക്രിയയെ തിരിച്ചറിയുക ഇവിടെ അത് അണ്ടർസ്റ്റാൻഡ്മായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് കോൺസെപ്റ്റുവൽ പ്രോസെഡ്യൂറൽ നോലെഡ്ജ് വിഭാഗങ്ങളുണ്ട് കൂടാതെ 5 സെഷനുകളും 1 ട്യൂട്ടോറിയൽ സെഷനും ഉണ്ട് എന്തായാലും മറ്റൊന്നിലേക്ക് വരുമ്പോൾ ബെയറിംഗുകളിലെ ഘർഷണ നഷ്ടവും ബെൽറ്റ് ഡ്രൈവുകളിൽ കൈമാറപ്പെടുന്ന പവറും നിർണ്ണയിക്കുക അതിനാൽ നിർണ്ണയിക്കുക എന്നാൽ അത് അപ്ലൈ ആണ് ഇത് ഒരു പ്രോസെഡ്യൂറൽ നോലെഡ്ജ് ആണ് ഇവിടെ ഈ ഫാക്കൽറ്റി അംഗം ഫണ്ടമെന്റൽ ഡിസൈൻ പ്രിൻസിപ്പൽസ് ' കൂടാതെ വിജ്ഞാന വിഭാഗങ്ങളിലൊന്ന് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ അത് പ്രസ്താവനയിൽ നേരിട്ട് പ്രതിഫലിക്കുന്നില്ല FDP പ്രസ്താവനയിൽ നേരിട്ട് പ്രതിഫലിക്കുന്നില്ല അവൻ ഉപയോഗിക്കുന്ന നിർദ്ദേശത്തിലോ വിലയിരുത്തലിലോ മാത്രമേ അത് പ്രതിഫലിക്കുകയുള്ളൂ ആവശ്യമുള്ള ഫോളോവർ ചലനത്തിനായി ഇവിടെ ക്യാമിന്റെ പ്രൊഫൈൽ വരയ്ക്കുക ഇപ്പോൾ ഇത് അപ്ലൈ ആണ് ഇവിടെ പ്രോസെഡ്യൂറൽ പിന്നെ ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് കൂടി അഭിസംബോധന ചെയ്യുന്നു ക്യാമിന്റെ ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഒരു കോഴ്സ് അവസാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു പട്ടികയിൽ അവതരിപ്പിച്ചിരിക്കുന്നു കോഴ്സ് ഔട്ട്കംസിന്റെ എണ്ണവും ആക്ച്വൽ കോഴ്സ് ഔട്ട്കംസും തുടർന്ന് PO കളും PSO യും അഭിസംബോധന ചെയ്യുന്നു കോഗ്നിറ്റീവ് ലെവൽ നോലെഡ്ജ് ക്യാറ്റഗറീസ് ക്ലാസ് റൂം സെഷനുകൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ സെഷനുകൾ ഉള്ളതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മണിക്കൂറുകളുടെ എണ്ണവും പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ ഒരു സഹപ്രവർത്തകനുമായോ മറ്റൊരു ഫാക്കൽറ്റി അംഗവുമായോ ഒരു വ്യവസായവുമായോ ഏതെങ്കിലും പങ്കാളിയുമായോ ചർച്ച ചെയ്യുമ്പോൾ കോഴ്സ് ഫല പ്രസ്താവനകളിലൂടെ നിങ്ങളുടെ കോഴ്സ് എന്താണെന്ന് ആശയവിനിമയം നടത്താനും അവയെ എല്ലാ ടാഗുകളിലൂടെയും തിരിച്ചറിയാനും ഇത് മികച്ച മാർഗമാണ് നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് ക്രെഡിറ്റുകൾ 4 0 0 അതിനർത്ഥം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രഭാഷണങ്ങളുടെ എണ്ണം 55 മുതൽ 60 വരെയും 4 ക്രെഡിറ്റ് കോഴ്സിനായി ലഭിക്കും ലബോറട്ടറി ഇല്ല ട്യൂട്ടോറിയലും ഇല്ല കൂടാതെ 5 പ്രസ്താവനകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ അതിനർത്ഥം ഓരോ കോഴ്സ് ഔട്ട്കമും വളരെ വലുതാണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഈ 12 സെഷനുകൾ നിങ്ങൾ എങ്ങനെ നടത്തുന്നുവെന്ന് നിങ്ങൾ വീണ്ടും ശ്രേണിപരമായി കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് ലളിതമായി പ്രസ്താവിച്ചിരിക്കുന്നു വീണ്ടും PO1 PSO1 എന്നിവ മറ്റൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല തുടർന്ന് കോഗ്നിറ്റീവ് ലെവൽ തിരിച്ചറിയുകയും എന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗം അറിവുകളൊന്നും തിരിച്ചറിയുകയും ചെയ്തിട്ടില്ല പക്ഷേ അത് എഴുതിയിരിക്കുന്ന രീതി നിങ്ങള്ക്ക് കാണാനാവുന്നപോലെ ചില CO കളുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസ് സെഷനുകൾ ഉണ്ട് ഇത് എഴുതാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണോ ഇത് വിഷയത്തെ പരിചയമുള്ളവരും ആ വിഷയത്തെ ആ പ്രത്യേക തലത്തിൽ കൈകാര്യം ചെയ്യുന്നവരുമായ ബന്ധപ്പെട്ട അധ്യാപകർ പരസ്പരം ചർച്ച ചെയ്യുകയും സാധ്യമായ ഏറ്റവും മികച്ച കോഴ്സ് ഫല പ്രസ്താവനകളുമായി വരാൻ ശ്രമിക്കുകയും വേണം നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം അനലോഗ് സർക്യൂട്ടുകളും സിസ്റ്റങ്ങളും ഒരു 3 0 1 എന്നതിനർത്ഥം ലാബ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് 40 പ്രഭാഷണങ്ങളും 28 മണിക്കൂർ ലാബും ഉണ്ട് ഇവിടെ നോക്കിയാൽ മറ്റ് PO കൾ ഉൾപ്പെടുത്താനുള്ള ശ്രമമുണ്ട് ഉദാഹരണത്തിന് ഇത് എടുക്കുക ലീനിയർ വൺ പോർട്ട് ടു പോർട്ട് സിഗ്നൽ പ്രോസസ്സിംഗ് നെറ്റ്വർക്കിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുക PO1 നല്ലതാണ് PSO1 നല്ലതാണ് എന്നാൽ PO10 ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനർത്ഥം നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ അധ്യാപകൻ ചില വിലയിരുത്തലുകൾ നടത്താൻ തയ്യാറാകും എന്നാണ് ഇത് ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമാകാം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാകാം ആശയവിനിമയത്തിന് കുറച്ച് ക്രെഡിറ്റും കുറച്ച് മാർക്കും നൽകാൻ ഞാൻ തയ്യാറാകുന്നു ആശയവിനിമയത്തിനായി ഞാൻ പ്രത്യേകമായി മാർക്ക് നൽകുന്നില്ലെങ്കിൽ അവിടെ PO10 എഴുതാൻ എനിക്ക് അവകാശമില്ല ശരി എല്ലായിടത്തും ഒരേ കഥയാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ VCVS CCVS അങ്ങനെ വോൾട്ടേജും SMPS വോൾട്ടേജ് റെഗുലേറ്ററുകളും രൂപകൽപ്പന ചെയ്യുക ഞങ്ങൾ ഇപ്പോൾ PO3 PO4 PO5 എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു സങ്കീർണ്ണമായ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് PO3 PO4 സങ്കീർണ്ണമായ അന്വേഷണങ്ങൾ നടത്തുന്നു PO3 ഡിസൈൻ ആണ് ഞങ്ങൾ ഡിസൈൻ ഉൾപ്പെടുത്തിയതുപോലെ അത് സ്വാഭാവികമാണ് PO5 ആധുനിക ടൂൾ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ് അതിനുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളിലൊന്ന് ഉപയോഗിച്ച് ഇത് രൂപകൽപ്പന ചെയ്യുന്നതിന് ഞങ്ങൾ സിമുലേഷൻ ഉപയോഗിക്കുന്നു കോൺസെപ്റ്റുവൽ നോലെഡ്ജ് പ്രോസെഡ്യൂറൽ നോലെഡ്ജ് ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് എന്നിവയെക്കുറിച്ചും പിന്നെ പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സിനെക്കുറിച്ചും നാം സംസാരിക്കുന്നത് ഇവിടെയാണ് അതിനാൽ ഇത് മറ്റ് എഞ്ചിനീയറിംഗ് വിജ്ഞാന വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യാമെന്നതിലും മറ്റ് PO കളെ എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്ന് അന്വേഷിക്കുന്നതിലും ചെറുതായി അഭിലഷണീയമാണ് ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിന് നിങ്ങൾ ഈ എല്ലാ PO കളെയും അഭിസംബോധന ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം പരിശ്രമം ആവശ്യമാണ് ഇപ്പോൾ ഈ കോഴ്സ് യൂണിറ്റിനുള്ള അസൈൻമെന്റ് നിങ്ങൾക്ക് പരിചയമുള്ളതോ പഠിപ്പിക്കുന്നതോ ആയ ഒരു കോഴ്സ് സൂചിപ്പിച്ചിട്ടുള്ള പട്ടിക ഫോർമാറ്റിൽ എഴുതുകയും POs PSOs കോഗ്നിറ്റീവ് ലെവൽ വിജ്ഞാന വിഭാഗങ്ങൾ ക്ലാസ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽലബോറട്ടറി സെഷനുകളുടെ എണ്ണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്നിവ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം നിങ്ങൾ ഇതിനകം മറ്റ് യൂണിറ്റുകളിലൂടെ കോഴ്സ് ഔട്ട്കംസ് നേരത്തെ എഴുതിയിട്ടുണ്ട് എന്നാണ് ആ പ്രവർത്തനം തുടരുക ഈ ഘടകങ്ങളുമായി ടാഗ് ചെയ്യുക ഇതായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് അടുത്ത യൂണിറ്റിൽ കോഴ്സ് ഔട്ട്കംസ് കണക്കാക്കാൻ നാം ശ്രമിക്കും കോഴ്സ് ഔട്ട്കംസ് നാം നിലനിർത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ചില സംവിധാനം നമുക്ക് ആവശ്യമാണ് അത് എങ്ങനെ ചെയ്യാം പിന്തുടരേണ്ട ഒരു സാധാരണ നടപടിക്രമം പോലെ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരു പ്രത്യേക നടപടിക്രമം നൽകും ഒരു നല്ല നടപടിക്രമത്തിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ പ്രസ്താവിക്കും വളരെയധികം നന്ദി